അവസാന ക്ലാസ്സിൽ മോഡ് III ന്റെ കാര്യത്തിൽ നമ്മൾ സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ചെയ്യാൻ തുടങ്ങി പരിഹാര വികസനത്തിൽ നമ്മൾ പാതിവഴിയിലായിരുന്നു അത് പൂർത്തിയാക്കി വരാൻ ഞാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു എനിക്ക് വിദ്യാർത്ഥികളുടെ മനശാസ്ത്രം അറിയാം ക്ലാസ്സിൽ തന്നെ എല്ലാം വിശദീകരിക്കാൻ നമ്മൾ കാത്തിരിക്കും നമ്മൾ അത് എഴുതി എടുക്കാൻ തുടങ്ങും അതിനാൽ നമുക്ക് മോഡ് III സാഹചര്യം നോക്കാം മോഡ് III ന്റെ കാര്യത്തിൽ നമ്മൾ പരിശോധിച്ചു നമ്മൾ കട്ടിയുള്ള വിള്ളലിലൂടെ കടന്നുപോയി അത് ആന്റി പ്ലെയിൻ ഷിയറിന് വിധേയമാണ് ഇത്തരത്തിലുള്ള ഒരു ലോഡിംഗ് സാഹചര്യം ദൃശ്യവൽക്കരിക്കുന്നതിൽ ഒരു വിദ്യാർത്ഥി ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചു വാസ്തവത്തിൽ നിങ്ങളുടെ അസൈൻമെന്റ് രണ്ട് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ സാധാരണയായി നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ഞാൻ നൽകി കൂടാതെ ലോഡിംഗ് രീതി എന്താണെന്ന് തിരിച്ചറിയാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു നമ്മൾ ആ എക്സർസൈസ് നോക്കുകയാണെങ്കിൽ ടോർഷന് വിധേയമായ ഒരു ഷാഫ്റ്റിന്റെ പ്രശ്നം നമുക്ക് എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും നമുക്ക് ഒരു സർക്കംഫറൻഷ്യൽ ക്രാക്ക് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ വികസിക്കാം നമുക്ക് ബെയറിംഗുകളോ ഗിയറുകളോ കണ്ടെത്തേണ്ടി വരുമ്പോൾ കണ്ടെത്തുന്നതിന് നമുക്ക് ഒരുതരം സംവിധാനം ആവശ്യമാണ് ഒരു സാധാരണ സമീപനം ഒരു സർക്ലിപ്പ് നൽകുക എന്നതാണ് അതിനാൽ നമ്മൾ ഷാഫ്റ്റിന്റെ ചുറ്റളവിൽ ഒരു ഗ്രൂവ് നൽകുകയാണ് ഒരു നിശ്ചിത കാലയളവിൽ നമുക്ക് ഈ ഗ്രൂവിൽ നിന്ന് ഒരു വിള്ളൽ വികസിപ്പിച്ചെടുക്കാം കൂടാതെ നമുക്ക് ഒരു സർക്കംഫറൻഷ്യൽ ക്രാക്ക് ഉണ്ടാകും ഇത് ടോർഷണൽ ലോഡിന് വിധേയമാകുമ്പോൾ ഇത് ഒരു സാധാരണ മോഡ് III ലോഡിംഗ് സാഹചര്യത്തിനുള്ള ഒരു ഘടകമാണ് അതിനാൽ നമ്മൾ ആ കാഴ്ചപ്പാടിൽ നിന്ന് ദൃശ്യവൽക്കരിക്കേണ്ടതുണ്ട് ഇത് ഡയഗ്രാമിൽ ആന്റി പ്ലെയിൻ ഷിയറായി കാണിക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരു ഡിസ്പ്ലേസ്മെൻറ് രൂപീകരണത്തിനായി പോകും അതിനാൽ നമ്മൾ ആദ്യം ഡിസ്പ്ലേസ്മെൻറ് നോക്കുക U z ഡിസ്പ്ലേസ്മെൻറ് യഥാർത്ഥത്തിൽ x y ന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഇത് ടോർഷന്നിലുള്ള നിങ്ങളുടെ ചതുരാകൃതിയിലുള്ള ഷാഫ്റ്റിന്റെ പ്രശ്നത്തിന് സമാനമാണ് ഈ സമാനമായ സാഹചര്യത്തിൽ നമുക്ക് ഒരു വാർപ്പിംഗ് ഫംഗ്ഷൻ ഉണ്ട് ഡിസ്പ്ലേസ്മെൻറ്ൽ നിന്ന് നമുക്ക് സ്ട്രെയിൻ കണ്ടെത്താൻ കഴിയും ഇവയെല്ലാം വളരെ സ്റ്റാൻഡേർഡ് അളവുകളാണ് അവസാന ക്ലാസിൽ നമ്മൾ അവയെ നോക്കി തുടർച്ചയ്ക്കായി ഞാൻ ഈ പദപ്രയോഗങ്ങൾ കാണിക്കുന്നു നമുക്ക് സ്ട്രെയിൻ ലഭിച്ചുകഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഫീൽഡ് കണ്ടെത്തുന്നതിന് പോകാം ഇപ്പോൾ ചോദ്യം എനിക്ക് w പ്രകടിപ്പിക്കേണ്ടതുണ്ട് കൂടാതെ ഒരു നോൺട്രിവിയൽ പരിഹാരം നേടാനും ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ ഒരു സന്തുലിത സമവാക്യം തൃപ്തിപ്പെടുത്തണം tau xz tau yz എന്നിവയ്ക്കുള്ള പദപ്രയോഗം ഇതിൽ ഞാൻ മാറ്റിസ്ഥാപിക്കുമ്പോൾ എനിക്ക് ഒരു ലാപ്ലേസ് സമവാക്യം ലഭിക്കും ഏതൊരു ഹാർമോണിക് പ്രവർത്തനവും ഇത് തൃപ്തിപ്പെടുത്തും നമ്മൾ ഇതിനെ 1 ബൈ G ZIII യുടെ സാങ്കൽപ്പിക ഭാഗമായി നിർവചിച്ചിരിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഡിസ്പ്ലേസ്മെൻറ് അറിയാം അതിർത്തി വ്യവസ്ഥകളെ തൃപ്തിപ്പെടുത്തുന്ന z നമ്മൾ തീരുമാനിച്ചുകഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിർണ്ണയിക്കപ്പെടുന്നു നിങ്ങളുടെ ലാപ്ലേസ് സമവാക്യം തൃപ്തിപ്പെടുത്തണം ഇത് നിങ്ങളുടെ w തൃപ്തിപ്പെടുത്തുന്നുണ്ടോയെന്ന് കണ്ടെത്തുക ഇവിടെ വെസ്റ്റർഗാർഡ് എന്താണ് നിർദ്ദേശിച്ചത് എന്ന് നോക്കാം നമുക്ക് ZIII ഉണ്ട് വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ZIII പ്രൈമിനാണ് അത് tau z ബൈ റൂട്ട് z സ്ക്വയർ മൈനസ് a സ്ക്വയർ ആയി നൽകിയിരിക്കുന്നു നമ്മൾ w എന്നത് ലാപ്ലേസ് സമവാക്യത്തിൽ പകരം വയ്ക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായും തൃപ്തികരമാണ് ക്രാക്ക് പ്രശ്നത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഗ്രാഹ്യത്തിൽ നിന്ന് ഈ സ്ട്രെസ് ഫംഗ്ഷൻ മോഡ് I ലോഡിംഗ് മോഡ് II ലോഡിംഗ് എന്നിവയിൽ നമ്മൾ കണ്ടതിനോട് വളരെ സാമ്യമുണ്ടെന്ന് നമ്മൾക്കറിയാം

അവിടെ നമ്മൾ അവയെ സ്ട്രെസ് ഫംഗ്ഷനായി ഉപയോഗിച്ചു ഡിസ്പ്ലേസ്മെൻറ് നിർവചിക്കുന്നതിന് നമ്മൾ സമാനമായ ഒരു ഫോം ഇവിടെ ഉപയോഗിക്കുന്നു ഈ ഷിയർ സ്ട്രെസ് പ്ലെയിൻ ഷിയർ ന് പുറത്ത് നമ്മൾ എടുക്കണം നമ്മൾക്കത് ലഭിച്ചുകഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ നമ്മൾ നോക്കിയതിന് സമാനമാണ് അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് മുമ്പത്തെ കേസുകളിൽ നമ്മൾ ചെയ്തതുപോലെയാണ് നമ്മൾ അതിന്റെ ഉറവിടം ക്രാക്ക് ടിപ്പിലേക്ക് മാറ്റണം അതിനാൽ നമ്മൾ ചെയ്യുന്നത് z എന്നത് z നോട്ട് പ്ലസ് a ആയി മാറുകയും നമ്മൾ ലളിതമാക്കുകയും ചെയ്യുന്നു ക്രാക്ക് ടിപ്പിന് വളരെ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒതുക്കാൻ പോകുന്നു അതിനർത്ഥം z നോട്ട് വളരെ ചെറുതാണ് അതിനാൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലഘൂകരണമുണ്ട് കൂടാതെ ZIII പ്രൈം tau റൂട്ട് a ബൈ റൂട്ട് 2 z നോട്ട് ആയി ചുരുങ്ങുന്നു നമുക്ക് ഇത് r തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കാനും ZIII പ്രൈം എന്താണെന്ന് എഴുതാനും കഴിയും അതിനാൽ അത് K III ബൈ 2 pi r റൂട്ട് 2 pi r ഗുണം കോസ് തീറ്റ ബൈ 2 മൈനസ് i സൈൻ തീറ്റ ബൈ 2 എന്ന് ലഭിക്കുന്നു ഇതു ലളിതമായതും നേരെ ഉള്ളതുമായ വഴിയാണ്

മോഡ് I മോഡ് II എന്നിവയുടെ കാര്യത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും സമാനമായ എക്സർസൈസ് ചെയ്യുന്നു അതിനാൽ നമുക്ക് ഇത് സുഖമായി എഴുതാം നമുക്ക് tau xz tau yz എന്നിവയ്ക്കായി ഒരു എക്സ്പ്രഷൻ ഉണ്ട് നമുക്ക് ZIII പ്രൈം അറിയാമെന്നതിനാൽ നമുക്ക് അവയെ എഴുതാം tau xz എന്നത് ZIII പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗമാണ് അതിനാൽ നമ്മൾ ഇവിടെ സാങ്കൽപ്പിക ഭാഗം നോക്കുമ്പോൾ ഇത് മൈനസ് KIII ബൈ റൂട്ട് 2 pi r സൈൻ തീറ്റ ബൈ 2 എന്ന് ലഭിക്കുന്നു കൂടാതെ tau yz എന്നത് ZIII പ്രൈമിന്റെ യഥാർത്ഥ ഭാഗമാണ് ഇത് നമുക്ക് K III ബൈ റൂട്ട് 2 pi r കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം

അതിനാൽ ഈ പദപ്രയോഗങ്ങൾ പരിശോധിച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കുന്നത് ഇതിന് റൂട്ട് r സിംഗുലാരിറ്റി ഉണ്ട് നമുക്ക് പ്രധാനമായും ഷിയർ സ്ട്രെസ് ഉണ്ട് സ്ട്രെസ് ഫീൽഡിന്റെ ശക്തി നിർണ്ണയിക്കുന്നത് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ K III യാണ് കൂടാതെ r തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഫംഗ്ഷൻ അനുസരിച്ച് വിതരണം തീരുമാനിക്കുന്നു തീറ്റ ഫംഗ്ഷൻ നിങ്ങൾക്ക് സൈൻ തീറ്റ ബൈ 2 ആയും കോസ് തീറ്റ ബൈ 2 ആയും ലഭിക്കുന്നു ഡിസ്പ്ലേസ്മെൻറ് നേരെയാണ് നമുക്ക് ഇത് ഇതിനകം അറിയാം r തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് എഴുതുന്നത് അതിനാൽ u z KIII ബൈ G റൂട്ട് 2r ബൈ pi ഗുണം സൈൻ തീറ്റ ബൈ 2 ആയി മാറുന്നു വാസ്തവത്തിൽ മോഡ് I മോഡ് II എന്നിവയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതുമായി ഈ പദപ്രയോഗങ്ങളെ താരതമ്യം ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് അതിർത്തി ഉള്ളതാണ് R 0 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ് ഒരു പരിമിത അളവാണ് വാസ്തവത്തിൽ ഇത് 0 ലേക്ക് പോകുന്നു അതേസമയം സ്ട്രെസ് സൈദ്ധാന്തികമായി അനന്തമായിത്തീരുന്നു കാരണം ഇത് ഒരു സിംഗുലാർ പോയിന്റാണ് അതിനാൽ സമാനമായ സാഹചര്യം നമ്മൾ മോഡ് III സാഹചര്യത്തിലും കാണുന്നു ക്രാക്ക് ടിപ്പിന് സമീപം സ്ട്രെസ് വളരെ കൂടുതലാണ് ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് അതിർത്തി ഉള്ളതാണ് ക്രാക്ക് ദൈർഘ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ z നോട്ട് വളരെ ചെറുതായതിനാൽ പരിഹാരം ക്രാക്ക് ടിപ്പിന് സമീപത്തായി മാത്രമേ സാധുതയുള്ളൂ അതും നമ്മൾ ഊന്നിപ്പറഞ്ഞു ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ലോഡ് ചെയ്യുന്ന സാഹചര്യം നോക്കുമ്പോൾ ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് വെസ്റ്റർഗാർഡ് നേടിയ പരിഹാരം പര്യാപ്തമാണോ എന്നതായിരുന്നു ഞാൻ ഉന്നയിച്ച ചോദ്യം മോഡ് I നായുള്ള വെസ്റ്റർഗാർഡ് പരിഹാരം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത നമ്മൾ ഇപ്പോൾ പൊതുവായ വെസ്റ്റർഗാർഡ് സമവാക്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ചെയ്യും വെസ്റ്റർഗാർഡിന്റെ സ്ട്രെസ് ഫംഗ്ഷൻ നമ്മൾ പരിശോധിച്ചതിനാൽ ഇത് ആവശ്യമാണ് പരിഷ്ക്കരിച്ച വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷനുകളും നമ്മൾ പരിശോധിച്ചു നമ്മൾ നോക്കിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് ഇർവിൻ അവതരിപ്പിച്ച ഒരു പരിഷ്ക്കരണം നമ്മൾ പരിശോധിച്ചു സിഗ്മ x സ്ട്രെസ് ടേമിലേക്ക് അദ്ദേഹം മൈനസ് സിഗ്മ നോട്ട് x ചേർത്തു അതിനാൽ അദ്ദേഹം ഈ പരമ്പരയിൽ ഒരു പദം കൂടി ചേർത്തു ഇത് ഒരു പരിഷ്ക്കരണമായിരുന്നു ടഡ പാരീസ് ഇർവിൻ എന്നിവരാണ് മറ്റ് പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചത് അവർ ചെയ്തത് ആദ്യത്തെ പദം മാത്രം എടുക്കുന്നതിനുപകരം നമ്മൾ z നോട്ട് a നെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് അദ്ദേഹം ഒരു ബൈനോമിയൽ പരമ്പരയായി ഡിനോമിനേറ്റർ പ്രകടിപ്പിക്കുകയും ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി പദങ്ങൾ അനുവദിക്കുകയും ചെയ്തു എന്നാൽ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ അത് വിള്ളൽ അക്ഷത്തിനടുത്തുള്ള ഏതെങ്കിലും ഫ്രിഞ്ച് ഓർഡർ പ്രവചിക്കുന്നില്ല ക്രാക്ക് അക്ഷത്തിൽ നമുക്ക് സ്ഥിരമായ ഒരു ഫ്രിഞ്ച് ഓർഡർ ആവശ്യമാണെന്ന് ഇർവിൻ പരിഷ്കരണത്തിൽ പറഞ്ഞു എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് കാണുന്നത് ചില സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള ഫ്രിഞ്ച് പാറ്റേണുകൾ നമ്മൾ കാണുന്നു അതിനാൽ നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത് വിള്ളൽ അക്ഷത്തിൽ നമുക്ക് നിരവധി ഫ്രിഞ്ച്കളുണ്ട് നമ്മൾക്ക് ഫ്രിഞ്ച്കൾ മുന്നോട്ട് ചരിഞ്ഞതും ഫ്രണ്ടൽ ലൂപ്പും ഉണ്ട് ഇത് ഒരു പരീക്ഷണാത്മക സാഹചര്യത്തിലാണ് ലഭിക്കുന്നത് സ്ട്രെസ് ഫീൽഡിന്റെ അടിസ്ഥാന സമവാക്യങ്ങൾ ഈ പ്രതിഭാസത്തെ വിശദീകരിക്കുന്നില്ലെങ്കിൽ പരിഹാരം പൂർണ്ണമല്ല ആളുകൾ ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച്കളിലേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ അവർ ഇതുപോലുള്ള ഒരു ചോദ്യം ഉന്നയിക്കുമായിരുന്നില്ല ഞങ്ങളുടെ പരിഹാര വികസനത്തിൽ എന്തോ തെറ്റ് സംഭവിച്ചതായി ഇത് കാണിക്കുന്നു അതിനാൽ നമുക്ക് അതിൽ ഒരു വീക്ഷണം ഉണ്ടായിരിക്കണം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരിഷ്ക്കരണം എന്താണ് ഈ സ്വഭാവം വിശദീകരിക്കുന്നതിനായി സാൻഫോർഡ് വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷൻ ക്യാപിറ്റൽ Z ന് ഒരു അധിക സ്ട്രെസ് ഫംഗ്ഷൻ Y അവതരിപ്പിച്ചു ഇത് വളരെ അസാധാരണമാണെന്ന് നമ്മൾക്കറിയാം നമ്മൾ ഒരു സ്ട്രെസ് ഫംഗ്ഷൻ എടുത്തിട്ടുണ്ടെന്ന് കാണുക മിക്ക പ്രശ്നങ്ങളിലും ആരെങ്കിലും നമുക്ക് സ്ട്രെസ് ഫംഗ്ഷൻ നൽകുന്നു ഇത് അതിർത്തി അവസ്ഥയെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ അത് ബൈ ഹാർമോണിക് സമവാക്യം തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് മാത്രമേ നമ്മൾ ഉറപ്പാക്കൂ എന്നിട്ട് നമ്മൾ അത് തുടരുക ഈ സ്ട്രെസ് ഫംഗ്ഷൻ പൂർണ്ണം ആണോ അല്ലയോ എന്ന് നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യരുത് വാസ്തവത്തിൽ സ്ട്രെസ് ഫംഗ്ഷൻ നൽകുന്ന ക്രാക്ക് അക്ഷത്തിൽ tau xy 0 ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു

നമ്മുടെ മുമ്പത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു tau xy ക്രാക്ക് അക്ഷത്തിൽ 0 ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു എങ്കിലും വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് ലഭിച്ച പരിഹാരം പരമാവധി ഷിയർ സ്ട്രെസ് 0 ആയിരുന്നു വെസ്റ്റർഗാർഡിന്റെ സ്ട്രെസ് ഫംഗ്ഷനും ടാഡ പാരീസ് ഇർവിൻ എന്നിവരുടെ പരിഷ്കരണവും നമുക്ക് അത് ആവശ്യമില്ല tau xy 0 എന്ന് മാത്രമേ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളൂ പരമാവധി ഷിയർ സ്ട്രെസ് 0 ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നാൽ നമുക്ക് ലഭിച്ച പരിഹാരം പരമാവധി ഷിയർ സ്ട്രെസ് 0 ആയിരുന്നു അതിനാൽ യഥാർത്ഥ പരീക്ഷണത്തിന്റെ കാര്യത്തിൽ പരമാവധി ഷിയർ സ്ട്രെസ് വ്യത്യാസമുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നു അതിനാൽ ഇത് വിശദീകരിക്കേണ്ടതുണ്ട് അതിനാൽ ഈ നിലപാടിൽ നിന്ന് സാൻഫോർഡ് ഒരു അധിക സ്ട്രെസ് ഫംഗ്ഷൻ ക്യാപിറ്റൽ Y z അവതരിപ്പിച്ചു ഇത് ന്യായമാണോ ഇതും നാം നോക്കേണ്ടതുണ്ട് എയറിസ് സ്ട്രെസ് ഫംഗ്ഷൻ ഈ രീതിയിൽ പരിഷ്ക്കരിച്ചു phi എന്നത് Z ഡബിൾ ബാറിന്റെ യഥാർത്ഥ ഭാഗം പ്ലസ് y Z ബാറിന്റെ സാങ്കൽപ്പിക ഭാഗത്തിനും തുല്യമാണെന്ന് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് മോഡ് I പ്രശ്നത്തിനായി നമ്മൾ കണ്ടത് ഇതാണ് സാൻഫോർഡ് ഒരു അധിക പദം y Y ബാറിന്റെ സാങ്കൽപ്പിക ഭാഗം അവതരിപ്പിച്ചു അവിടെ സ്ട്രെസ് ഫംഗ്ഷൻ Y മറ്റ് രണ്ട് അനലിറ്റിക് ഫംഗ്ഷനുകൾ psi chi എന്നിവയുടെ പ്രവർത്തനമായി നൽകുന്നു ഇതുപോലൊന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന നിമിഷം കാണുക നമ്മുടെ ആമുഖത്തിന്റെ തെളിവ് എന്താണ് ഒരു പരീക്ഷണത്തിൽ കാണുന്നതെന്താണെന്ന് ഇത് വിശദീകരിക്കണം അതിനാൽ എനിക്ക് വളരെ പൊതുവായ ഒരു പരിഹാരം ഉള്ളപ്പോൾ പ്രത്യേക കേസുകൾ നമ്മൾ നേരത്തെ കണ്ട ലളിതമായ കേസുകളിലേക്ക് ചുരുക്കണം അത് തൃപ്തികരമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയും എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പരിഹാരം എന്തായാലും സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങളുടെ ഏറ്റവും സാധാരണമായ രൂപമോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന പ്രശ്നത്തിനുള്ള ഏറ്റവും സാധാരണമായ സ്ട്രെസ് ഫംഗ്ഷനുകളോ ആണ് അത്തരത്തിലുള്ള ഒരു ധാരണ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും സാൻഫോർഡ് ചെയ്തത് ഇലാസ്റ്റിസിറ്റി സിദ്ധാന്തത്തിൽ നമുക്ക് സങ്കീർണ്ണമായ വേരിയബിളുകൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കൊളോസോവ് മസ്കെലിഷ്വിലി സമീപനം എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഒരു സമീപനമുണ്ട് അതിനാൽ y Y ബാറിന്റെ സാങ്കൽപ്പിക ഭാഗം എന്ന അധിക പദം വിശദീകരിക്കാൻ അദ്ദേഹം ഈ സമീപനം ഉപയോഗിച്ചു വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ ചിലത് നമുക്ക് കാണാൻ കഴിയും 1979 ൽ സാൻഫോർഡ് ഇത് പ്രസിദ്ധീകരിച്ചു ഓപ്പണിംഗ് മോഡ് വിള്ളൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വെസ്റ്റർഗാർഡ് രീതിയുടെ നിർണ്ണായകമായ പുനപരിശോധനയായിരുന്ന ഈ പേപ്പർ മെക്കാനിക്സ് റിസർച്ച് കമ്മ്യൂണിക്കേഷനിൽ പ്രത്യക്ഷപ്പെട്ടു

അതിനാൽ നമുക്ക് പേപ്പർ നോക്കാം ഈ കൊളോസോവ് മസ്കെലിഷ്വിലി സമീപനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് പാറ്റേണിന്റെ പ്രസക്തി കൂടി നോക്കും സ്ട്രെസ് ഫംഗ്ഷൻ Y ഉൾപ്പെടുത്തുന്നത് സ്ഥിരീകരിക്കുന്നതിന് ഈ ഫ്രിഞ്ച് പാറ്റേൺ ഒരു ഘടകമായി സ്വീകരിച്ചത് എന്തുകൊണ്ട് നമുക്ക് മോഡ് I ഫ്രിഞ്ച് പാറ്റേണുകൾ ഒന്ന് നോക്കാം ഇവിടെ നോക്കിയാൽ ഇതിൻറെ അതിർത്തികൾ കാണാം എനിക്ക് ഒരു അരികിൽ നിന്ന് വരുന്ന ഒരു വിള്ളൽ ഉണ്ട് ഇതിനെ സിംഗിൾ എഡ്ജ് നോച്ച്ഡ് സ്പെസിമെൻ എന്ന് വിളിക്കുന്നു ഈ അരികിൽ നിന്ന് എനിക്ക് ഒരു വിള്ളൽ ഉണ്ട് മറ്റേ അഗ്രം ഇവിടെ കാണിച്ചിരിക്കുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ വിള്ളൽ നടുക്ക് എവിടെയെങ്കിലും അല്ലെങ്കിൽ മധ്യത്തേക്കാൾ അല്പം കുറവാണ് അതിനാൽ a ബൈ w അനുപാതം 0 4 ന് അടുത്ത് ആയിരിക്കും ഇത് 0 5 അല്ല എന്നാൽ a ബൈ w 0 4 ആണ്

ഒപ്പം വിള്ളലിന്റെ നീളം കൂടുതൽ ദൈർഘ്യമേറിയതും വിള്ളൽ സ്വതന്ത്ര അതിർത്തിയോട് അടുക്കുന്നതുമായ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാം അതിനാൽ ആളുകൾ ശ്രദ്ധിച്ചത് വിള്ളൽ സ്വതന്ത്ര അതിർത്തിയോട് വളരെ അടുത്ത് പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വികസിപ്പിച്ചെടുത്ത ഫ്രണ്ടൽ ലൂപ്പുകൾ നമുക്കുണ്ട്

ഇർവിന്റെ പരിഷ്ക്കരണം നോക്കുകയാണെങ്കിൽ ചെറിയ ഒരു വിള്ളലിന് ഫ്രിഞ്ച്കൾ മുന്നോട്ട് ചരിഞ്ഞുപോകുന്നു ആ വശം ഇർവിന്റെ പരിഹാരത്തിലൂടെ കണ്ടുപിടിക്കുകയും അത് ക്രാക്ക് അക്ഷത്തിൽ സ്ഥിരമായ ഒരു ഫ്രിഞ്ച് ഓർഡർ കാണിക്കുകയും ചെയ്യുന്നു അതിനാൽ വിള്ളലിന്റെ നീളം കൂടുതൽ വർദ്ധിക്കുകയും ഒരു സ്വതന്ത്ര അതിർത്തിയിലേക്ക് അടുക്കുകയും ചെയ്യുമ്പോൾ ഈ പരിഷ്ക്കരണം ബാധകമല്ല നമ്മൾ ഓർത്തു നോക്കുകയാണെങ്കിൽ സമ്മർദ്ദത്തിൽ ഉള്ള സിലിണ്ടറിലെ വിള്ളലിന്റെ കാര്യത്തിൽ നമുക്ക് ഫ്രണ്ടൽ ലൂപ്പ് സാഹചര്യം ലഭിച്ചു വിള്ളൽ മതിയായ നീളമുണ്ടായിരുന്നു അതിന്റെ അതിരുകളിലൊന്നിനടുത്തായിരുന്നു അത് ഇത് ഒരു സ്ട്രെസ് കേന്ദ്രീകരണ മേഖലയിലാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ടൽ ലൂപ്പ് ലഭിച്ചു SEN മാതൃകകളുടെ കാര്യത്തിൽ ആ വിള്ളൽ നീളം കൂടുതലായിരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു നമുക്ക് ഒരു ഫ്രണ്ടൽ ലൂപ്പ് ഉണ്ട് സിഗ്മ നോട്ട് x പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചിഹ്നം മാറ്റുന്നതിലൂടെ ക്രാക്ക് ടിപ്പിന് സമീപം നമ്മൾ കാണുന്ന ഫ്രഞ്ച് പാറ്റേണിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അത് നെഗറ്റീവ് ആകുമ്പോൾ എന്റെ പരിഹാരത്തിൽ ശ്രദ്ധിക്കുക ഞാൻ മൈനസ് സിഗ്മ നോട്ട് x എന്ന എടുത്തിരിക്കുന്നു ആ മൈനസ് സിഗ്മ നോട്ട് x ഇൽ സിഗ്മ നോട്ട് x പോസിറ്റീവ് അല്ലെങ്കിൽ സിഗ്മ നോട്ട് x നെഗറ്റീവ് ആയിരിക്കുമ്പോൾ ഈ വ്യാഖ്യാനങ്ങളിൽ നൽകിയിട്ടുള്ളത് അതിനാൽ ആ തരത്തിലുള്ള പ്രാതിനിധ്യം മാത്രം നോക്കണം അപ്പോൾ മാത്രമേ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നിവയ്ക്ക് പ്രാധാന്യമുള്ളൂ അതിനാൽ ഇവിടെ എനിക്ക് പിന്നിലേക്ക് ചരിഞ്ഞ വിള്ളലുകൾ ഉണ്ട് ചതുരാകൃതിയിലുള്ള ഇരട്ട കാന്റിലിവർ ബീം വസ്തുക്കളിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കാണപ്പെടുന്നു നമ്മൾ ഇതിനകം ഇരട്ട കാന്റിലിവർ ബീം നോക്കി നമുക്ക് മുകളിലും താഴെയുമുള്ള വളരെ നേർത്ത ഭാഗം ഉണ്ടായിരുന്നു എനിക്ക് ഇതുപോലുള്ള നീളമുള്ളതും വിശാലവുമായ ഒരു മാതൃക ഉണ്ടെന്നും കരുതുക അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു വിള്ളൽ ഉണ്ടെങ്കിൽ അവിടെ ലോഡിംഗ് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഞ്ച്കൾ പിന്നിലേക്ക് ചരിഞ്ഞതായി കാണാം അതിനാൽ സിഗ്മ നോട്ട് x പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് മാറ്റുന്നതിലൂടെ SEN മാതൃകകളിലെ ഹ്രസ്വ വിള്ളലുകൾ വിശകലനം ചെയ്യാനും RDCB മാതൃകകളിലെ ഹ്രസ്വ വിള്ളലുകൾ വിശകലനം ചെയ്യാനും കഴിയും എന്ന ഇർവിന്റെ പരിഹാരത്തിൽ ആളുകൾ സന്തുഷ്ടരാണ് ഈ മാതൃകയിൽ വിള്ളൽ മുന്നേറുകയും അതിർത്തിയോട് അടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇത് മാതൃകയുടെ അതിർത്തിയാണെന്ന് സങ്കൽപ്പിക്കുക വീണ്ടും പരീക്ഷണാത്മകമായി ഇത് റെക്കോർഡുചെയ്യുന്നു ഫ്രിഞ്ച്കൾ മുന്നോട്ട് ചരിഞ്ഞ ലൂപ്പുകളും ഒരു ഫ്രണ്ടൽ ലൂപ്പും ഉണ്ടായിരിക്കും അതിനാൽ ക്രാക്ക് ടിപ്പ് ഒരു അതിർത്തിയോട് അടുക്കുമ്പോഴും അത് ദൈർഘ്യമേറിയതാണ് എങ്കിലും നമുക്ക് സ്ഥിരമായി ഫ്രണ്ടൽ ലൂപ്പുകൾ ലഭിക്കും അതായത് പരമാവധി ഷിയർ സ്ട്രെസ് ക്രാക്ക് അക്ഷത്തിൽ വ്യത്യാസപ്പെടുന്നു അതിനാൽ ഇത് നിങ്ങളുടെ സ്ട്രെസ് ഫീൽഡിന്റെ പ്രാതിനിധ്യത്തിൽ പിടിച്ചെടുക്കേണ്ടതുണ്ട് ഇത് പിടിച്ചെടുത്തില്ലെങ്കിൽ പരീക്ഷണത്തിൽ നിരീക്ഷിക്കുന്നത് നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഇവിടെ മാത്രമാണ് കൊളോസോവ് മസ്കെലിഷ്വിലിയുടെ സമീപനം സഹായിച്ചത് അത് എന്താണെന്ന് നമ്മൾ കാണും കൊളോസോവ് മസ്കെലിഷ്വിലി സമീപനം സങ്കീർണ്ണമായ വേരിയബിളുകൾ ഉപയോഗിക്കുന്നു എന്താണ് പ്രയോജനം ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു നേർരേഖയാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഡൊമെയ്നുകളെ ഈ സമീപനം അനുവദിക്കുന്നു വസ്തുവിൻറെ ആന്തരിക ഭാഗത്തെ സ്ട്രെസ് അതിർത്തിയിലെ ട്രാക്ഷനുകളുടെയോ ഡിസ്പ്ലേസ്മെൻറ്ന്റെയോ ഇന്റഗ്രൽ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതേണ്ടതാണ് ഇതൊരു പ്രധാന പോയിന്റാണ് അതിർത്തി വ്യവസ്ഥകൾ നമ്മൾ വ്യക്തമാക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ സ്ട്രെസ് കണ്ടെത്താൻ സാധ്യമാണ് ഇത് എന്ത് വഴിയാണ് പ്രയോജനപ്പെടുത്തിയത് യഥാർത്ഥ സ്ട്രെസ് ഫംഗ്ഷൻ സമീപനത്തിൽ ചിലപ്പോൾ ആവശ്യമായ നിർബന്ധ ഊഹാപോഹങ്ങൾ നീക്കംചെയ്യുന്നതിലൂടെ ഇത് പ്രയോജനം നേടി ആശയം ഇതാണ് നമ്മുടെ സ്ട്രെസ് ഫംഗ്ഷൻ സമീപനത്തിൽ സ്ട്രെസ് ഫംഗ്ഷൻ എങ്ങനെ പ്രധാനമാണെന്ന് നമ്മൾ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു സ്ട്രെസ് ഫംഗ്ഷൻ രൂപപ്പെടുത്തുകയും അത് ഏത് പ്രശ്നത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അന്വേഷിക്കുകയും ചെയ്യും അതിർത്തി വ്യവസ്ഥകൾ തൃപ്തിപ്പെടുത്തുന്നതിനായി നമ്മൾ ശരിക്കും പ്രശ്നത്തിലേക്ക് നോക്കുന്നില്ല നമ്മൾ സ്ട്രെസ് ഫംഗ്ഷൻ വിലയിരുത്തുന്നില്ല നമുക്ക് ഒരു അർദ്ധ വിപരീത സമീപനം മാത്രമേയുള്ളൂ അതിനാൽ സ്ട്രെസ് ഫംഗ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ ഏത് പ്രശ്നമാണ് അത് പരിഹരിക്കുന്നത് അത് നമ്മൾ നോക്കിയ രീതിയാണ് സ്ട്രെസ് ഫംഗ്ഷനിൽ നമ്മൾ എങ്ങനെ എത്തി നമ്മൾ പറഞ്ഞു അത് അവബോധത്താലാണ് അത് ട്രയൽ ആൻഡ് എറർ രീതിയിലാണ് നിർദ്ദിഷ്ട രീതികൾ ഒന്നുമില്ല സങ്കീർണ്ണമായ വേരിയബിൾ സമീപനം ഒരു രീതി നൽകുന്നു പക്ഷേ ആ രീതി തികച്ചും ബുദ്ധിമുട്ടാണെന്ന് ആളുകൾ റിപ്പോർട്ട് ചെയ്തു അതും ആളുകൾ റെക്കോർഡുചെയ്തത് കോൺഫോർമൽ മാപ്പിംഗിന്റെ സാങ്കേതികത ഉപയോഗിച്ച് രീതിയുടെ വ്യാപ്തി വിവിധ ജോമട്രികളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയും എന്നതാണ് ഇവിടെയുള്ള നേട്ടം കൊളോസോവ് മസ്കെലിഷ്വിലി സമീപനം എനിക്ക് സങ്കീർണ്ണമായ അതിർത്തി മൂല്യ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺഫോർമൽ മാപ്പിംഗ് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഉദാഹരണത്തിന് എലിപ്റ്റിക്കൽ ദ്വാരമുള്ള പ്ലേറ്റ് അവർക്ക് ഒരു കോൺഫോർമൽ മാപ്പിംഗ് കണ്ടെത്താനാകും എന്നിട്ട് അത് ഒരു സർക്കിളായി ഇടുക തുടർന്ന് പ്രശ്നം പരിഹരിക്കുക അതിനാൽ സങ്കീർണ്ണമായ വേരിയബിൾ സമീപനവുമായി കോൺഫോർമൽ മാപ്പിംഗ് കൈകോർക്കുന്നു എന്താണ് പ്രയോജനം വിശാലമായ ഒരു ജോമട്രിയും അതിർത്തി വ്യവസ്ഥകളും ഉള്ള വിഭാഗത്തിന് കൃത്യമായ പരിഹാരങ്ങൾ നേടാൻ നമ്മൾക്ക് കഴിയുമെന്നതാണ് ഇതിന്റെ പ്രയോജനം അതിനാൽ ഇത് നമുക്ക് പരിഹരിക്കാനാകുന്ന പ്രശ്നങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ആളുകൾ അത് നോക്കിക്കാണുന്നത് അങ്ങനെയാണ് കോംപ്ലക്സ് വേരിയബിളുകളുടെ സമീപനം അൽപ്പം ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ ഇത് നമുക്ക് ഒരു രീതി നൽകുന്നു അതിലൂടെ നമുക്ക് പ്രശ്നത്തെ ആസൂത്രിതമായി നേരിടാൻ കഴിയും 1898 ൽ ഗൌർസാറ്റ് നേടിയ വളരെ രസകരമായ ഒരു ഫലമുണ്ട് അദ്ദേഹം നേടിയത് നൽകിയ എയറിസ് സ്ട്രെസ് ഫംഗ്ഷന് സങ്കീർണ്ണമായ സാധ്യതകൾ കണ്ടെത്തുന്നത് എല്ലായ്പ്പോഴും സാധ്യമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് 1898 ലാണ് ഇത് കണ്ടുപിടിച്ചത് പിന്നീട് ആണ് മറ്റ് വികാസങ്ങൾ വന്നത് അതിനാൽ നമുക്ക് എയറിസ് സ്ട്രെസ് ഫംഗ്ഷൻ ഉള്ളപ്പോഴെല്ലാം സങ്കീർണ്ണമായ സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ ഇത് എല്ലായ്പ്പോഴും പ്രതിനിധീകരിക്കാം അവ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു

നമുക്ക് z സ്റ്റാർ ന്റെ യഥാർത്ഥ ഭാഗത്തിന് തുല്യമായ phi ഉണ്ട് Z സ്റ്റാർ നിങ്ങളുടെ സങ്കീർണ്ണമായ സംയോജനത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ z എന്നത് x പ്ലസ് i y ആണ് z സ്റ്റാർ x മൈനസ് i y ഗുണം അനലിറ്റിക് ഫംഗ്ഷൻ psi z പ്ലസ് chi z ആണ് ഇവിടെ എനിക്ക് ഇടത് വശത്ത് എറിസ് സ്ട്രെസ് ഫംഗ്ഷൻ ഉണ്ട് വലതുവശത്ത് പൊതുവേ എനിക്ക് രണ്ട് വിശകലന പ്രവർത്തനങ്ങൾ ഉണ്ട് നമ്മൾ അത് മനസ്സിൽ സൂക്ഷിക്കണം വെസ്റ്റർഗാർഡ് സമീപനത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് കണ്ടത് നമ്മൾ ക്യാപിറ്റൽ z ൻറെ രൂപത്തിൽ phi പ്രതിനിധീകരിക്കുന്നു എന്നാൽ ഒരു പൊതുവായ സാഹചര്യത്തിൽ psi യുടെയും chi യുടെയും ഫംഗ്ഷൻ ആയി phi പ്രകടിപ്പിക്കപ്പെടുന്നു അതിനാൽ രണ്ട് അനലിറ്റിക് ഫംഗ്ഷനുകൾ ഉൾപ്പെടുന്നു ഈ കൊളോസോവ് മസ്കെലിഷ്വിലി സമീപനത്തിന്റെ മറ്റൊരു ഗുണം ഡിസ്പ്ലേസ്മെൻറ് കണക്കാക്കാൻ ഈ രീതി ലളിതമായ മാർഗ്ഗം നൽകുന്നു ഏതെങ്കിലും എയറിസ് സ്ട്രെസ് ഫംഗ്ഷന് സങ്കീർണ്ണമായ സാധ്യതകൾ ഞാൻ തിരിച്ചറിയുകയാണെങ്കിൽ എനിക്ക് ഡിസ്പ്ലേസ്മെൻറ് നേരിട്ട് കണ്ടുപിടിക്കാൻ കഴിയും നമുക്ക് സ്ട്രെസ് ഫോർമുലേഷനും ഡിസ്പ്ലേസ്മെന്റ് ഫോർമുലേഷനും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലൂടെ നമുക്ക് സ്ട്രെസ് ഫീൽഡ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് സ്ട്രെയിൻ ഫീൽഡ് തുടങ്ങിയവ പരിഹരിക്കാനാകും നമ്മൾ സ്ട്രെസ് ഫോർമുലേഷൻ പലതവണ എടുക്കുന്നുണ്ടെങ്കിലും സ്ട്രെയിൻ ഫീൽഡും ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡും നോക്കുന്നതിനേക്കാൾ നമ്മൾ സ്ട്രെസ് ഫീൽഡ് പ്രശ്നം പരിഹരിക്കുകയും അടുത്ത പ്രശ്നത്തിലേക്ക് പോകുകയും ചെയ്യുന്നു മോഡ് I ന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ സ്ട്രെസ് ഫീൽഡ് നോക്കി നമ്മൾ സ്ട്രെയിൻ ഫീൽഡ് നോക്കി നമ്മൾ മുന്നോട്ട് നീങ്ങി ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് കണ്ടെത്തി ഡിസ്പ്ലേസ്മെൻറ് കണ്ടെത്തുമ്പോൾ f G എന്നിവയുടെ ഇന്റഗ്രൽ ഫംഗ്ഷൻ 0 ആയിരിക്കേണ്ടതിന്റെ കാരണം നമ്മൾ ദീർഘനേരം വാദിച്ചു അവ റിജിഡ് ബോഡി വിവർത്തനത്തെയും ഭ്രമണത്തെയും പ്രതിനിധീകരിക്കുന്നുവെന്ന് നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ലഭിക്കുന്നതിന് നമുക്ക് ഒരു സർക്യൂട്ട് സമീപനം ചെയ്യേണ്ടിവന്നു മറുവശത്ത് കൊളോസോവ് മസ്കെലിഷ്വിലി സമീപനത്തിന്റെ ഒരു ഗുണം നമ്മൾ psi യും chi യും കണ്ടെത്തിക്കഴിഞ്ഞാൽ എനിക്ക് വളരെ എളുപ്പവും നേരായതുമായ രീതിയിൽ ഡിസ്പ്ലേസ്മെൻറ് എഴുതാം അത് എങ്ങനെ എഴുതിയിരിക്കുന്നു 2 G ഗുണം u പ്ലസ് iv എന്നത് 3 മൈനസ് ന്യൂ ബൈ 1 പ്ലസ് ന്യൂ ഗുണം psi z z psi സ്റ്റാർ പ്രൈം എന്നതിനു തുല്യമാണ് അതിനാൽ ഇത് ഒരു കോംപ്ലക്സ് കോൺജുഗേറ്റ് ഇത് z സ്റ്റാർ chi സ്റ്റാർ പ്രൈം z സ്റ്റാർത്തിന്റെ ഫംഗ്ഷൻ ആണ് ഇത് പ്ലെയിൻ സ്ട്രെസ് ന് വേണ്ടിയാണ് ഈ സമവാക്യങ്ങൾ 1909 ൽ കൊളോസോവ് നേടി ഇത് അദ്ദേഹത്തിന്റെ ഡോക്ടറൽ പ്രബന്ധത്തിന്റെ ഭാഗമായിരുന്നു ആ കാലങ്ങളിൽ ഡോക്ടറൽ തീസിസ് വളരെ ലളിതമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം അത് അങ്ങനെയല്ല അക്കാലത്ത് ഇതുപോലുള്ള ഒരു ആശയത്തിൽ എത്തിച്ചേരുകയും അത് സ്ഥാപിക്കുകയും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു വാസ്തവത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ച സമവാക്യങ്ങളെക്കുറിച്ച് ആളുകൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു ഒരു സംവാദത്തിനുശേഷം മാത്രമേ ഈ സമവാക്യങ്ങൾ ഒരു നിശ്ചിത അളവിലുള്ള ഗണിതശാസ്ത്ര കാഠിന്യത്താൽ ഉരുത്തിരിഞ്ഞതായി തിരിച്ചറിയൂ പ്ലെയിൻ സ്ട്രെസ്നായി എനിക്ക് ഈ പദപ്രയോഗങ്ങളുണ്ട് പ്ലെയിൻ സ്ട്രെയിനിനായി nu ന് തുല്യമായ nu ബൈ 1 മൈനസ് nu കൊണ്ട് മാറ്റി സ്ഥാപിക്കുന്നു എയറിസ് സ്ട്രെസ് ഫംഗ്ഷന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്തത് എയറിസ് സ്ട്രെസ് ഫംഗ്ഷൻ നിർണ്ണയിച്ചുകഴിഞ്ഞാൽ എയറിസ് സ്ട്രെസ് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ സ്ട്രെസ് ഫീൽഡ് പ്രകടിപ്പിക്കാം നമുക്ക് സിഗ്മ x dow സ്ക്വയേർഡ് phi ബൈ dow y സ്ക്വയറിനു തുല്യമാണ് സിഗ്മ y dow സ്ക്വയർ phi ബൈ dow x സ്ക്വയറിനു തുല്യമാണ് സ്ട്രെസ് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ ഡിസ്പ്ലേസ്മെൻറ് ഘടകങ്ങൾ എങ്ങനെ എഴുതാമെന്ന് നമ്മൾ ഒരിക്കലും എഴുതിയിട്ടില്ല അതാണ് വ്യത്യാസം വാസ്തവത്തിൽ നമ്മൾ കൊളോസോവ് മസ്കെലിഷ്വിലി സമീപനം നോക്കുമ്പോൾ അവ ആദ്യം ഡിസ്പ്ലേസ്മെൻറ് നിർണ്ണയിക്കുന്നതിൽ മാത്രം നേട്ടം നൽകുന്നു പിന്നെ അവർ പോയി psi chi എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്ട്രെസ് ഫീൽഡ് എഴുതുന്നു അവർ എഴുതുന്ന ആദ്യത്തെ അളവ് ഡിസ്പ്ലേസ്മെൻറ് ആണ്

തന്നിരിക്കുന്ന ഒരു പ്രശ്നത്തിന് നമ്മൾ psi chi എന്നിവ നിർണ്ണയിച്ചുകഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഘടകങ്ങളും എഴുതാം നമുക്ക് സിഗ്മ x പ്ലസ് സിഗ്മ y എന്നത് 2 psi പ്രൈം z പ്ലസ് 2 psi സ്റ്റാർ പ്രൈം z സ്റ്റാർ ഇത് psi പ്രൈം z ന്റെ യഥാർത്ഥ ഭാഗത്തിന് 4 മടങ്ങ് തുല്യമാണ് എനിക്ക് സിഗ്മ y മൈനസ് സിഗ്മ x പ്ലസ് 2 i tau xy എന്നത് 2 തവണ z സ്റ്റാർ psi ഡബിൾ പ്രൈം z പ്ലസ് chi ഡബിൾ പ്രൈം z എന്നിവയ്ക്ക് തുല്യമാണ്

കോംപ്ലക്സ് പൊട്ടൻഷ്യലുകളിലെ സ്ട്രെസ് ഫംഗ്ഷൻറെ രൂപങ്ങൾ ഇപ്പോൾ പ്രശ്നം എന്തിലേക്ക് ചുരുക്കി തന്നിരിക്കുന്ന ഒരു പ്രശ്നത്തിന് നമ്മൾ psi chi എന്നിവ കണ്ടെത്തണം Psi chi എന്നിവ നിർണ്ണയിക്കപ്പെടുകയാണെങ്കിൽ പ്രശ്നത്തെക്കുറിച്ചുള്ള എല്ലാം പരിഹരിക്കപ്പെടും സങ്കീർണ്ണമായ ഫംഗ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ സാധാരണ സ്ട്രെസ് ഫംഗ്ഷനുകൾ നമ്മൾ പരിശോധിക്കും Y ദിശയിൽ തീവ്രത q ഉള്ള യൂണിഫോം ടെൻസൈൽ ഫോഴ്സിന് വിധേയമായ ചതുരാകൃതിയിലുള്ള പ്ലേറ്റിലേക്ക് നമ്മൾ നോക്കുന്നു ഇത് ഏകീകൃത ലോഡിംഗ് പോലെയാണ് നമുക്ക് ഇത് psi z എന്നത് q ബൈ 4 ഗുണം z നു തുല്യമാണ് chi പ്രൈം z എന്നത് q ബൈ 2 ഗുണം z നു തുല്യമാണ് അതിനാൽ ഒരു ഏകീകൃത ലോഡിംഗിനായി നമുക്ക് psi chi പ്രൈം ഉണ്ട് നമ്മൾ ശരിക്കും പോളിനോമിയൽ ഫംഗ്ഷനുകൾ നോക്കുന്നുണ്ടോയെന്ന് നോക്കുക എനിക്ക് പോളിനോമിയൽ x സ്ക്വയർ a x സ്ക്വയർ പോലെയാണെന്ന് കരുതുക അത് എന്താണ് പ്രതിനിധീകരിക്കുന്നത് നമ്മൾ x സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് സ്വപ്രേരിതമായി ബൈ ഹാർമോണിക് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു കാരണം നമുക്ക് dou പവർ 4 ഫൈ ബൈ dou x പവർ 4 ഉം ഉണ്ട് അതിനാൽ രണ്ടാമത്തെ ഡിഗ്രി പോളിനോമിയൽ ഇത് തൃപ്തിപ്പെടുത്തും അതിനാൽ നമ്മൾ അത് എടുക്കുകയാണെങ്കിൽ സിഗ്മ y എന്നത് dou സ്ക്വയർ phi ബൈ dou x സ്ക്വയർ ആണ് അതിനാൽ പോളിനോമിയൽ ഫംഗ്ഷനിൽ എനിക്ക് ഒരു ഏകീകൃത സ്ട്രെസ് ഫീൽഡ് ഉണ്ടെങ്കിൽ നമ്മൾ അത് x സ്ക്വയർ a എക്സ് സ്ക്വയർ അല്ലെങ്കിൽ അത്തരം ചില ഫംഗ്ഷനുകൾ എന്ന് എഴുതുന്നു സമാനമായി നമുക്ക് സങ്കീർണ്ണമായ അളവിൽ നോക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള psi chi prime എന്നിവ നിർവചിക്കുന്നു X ദിശയിലുള്ള q നുള്ള സ്ട്രെസ് ഫംഗ്ഷൻ കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക psi z അതേപടി തുടരുന്നു chi പ്രൈം z മൈനസ് q ബൈ 2 z ലേക്ക് മാറുന്നു എനിക്ക് ഒരു ബൈ ആക്സിയൽ ലോഡിംഗ് സാഹചര്യം ഉണ്ടെന്ന് കരുതുക എനിക്ക് ഈ രണ്ട് സ്ട്രെസ് ഫംഗ്ഷനുകൾ ചേർക്കാൻ കഴിയും അതിനാൽ എനിക്ക് ബൈ ആക്സിയൽ ലോഡിംഗ് ഉണ്ടെങ്കിൽ psi മാത്രം നിലനിൽക്കും chi അപ്രത്യക്ഷമാകുന്നു x y ദിശകളിൽ തീവ്രത q യുടെ ഏകീകൃത ഷിയർ സ്ട്രെസ് ഫോഴ്സ്ന് വിധേയമാകുന്ന ഒരു ചതുരാകൃതിയിലുള്ള പ്ലേറ്റ് ഉള്ള മറ്റൊരു പ്രശ്നം നമ്മൾ ഇപ്പോൾ എടുക്കുന്നു psi chi പ്രൈം എന്നീ ഫംഗ്ഷനുകൾ ഇതുപോലെ നൽകുന്നു psi z പൂജ്യത്തിന് തുല്യമാണ് chi പ്രൈം z എന്നിവ iqz ന് തുല്യമാണ് നമ്മൾ തിരികെ പോയി വെസ്റ്റർഗാർഡ് സൊല്യൂഷനായി നമുക്ക് ലഭിച്ച പരിഹാരത്തെക്കുറിച്ച് ഒരു പുനരന്വേഷണം നോക്കുകയാണെങ്കിൽ പോലും വെസ്റ്റർഗാർഡിന്റെ സിംഗുലാർ പരിഹാരത്തിൽ നിന്നുള്ള ഫ്രിഞ്ച് പാറ്റേൺ താരതമ്യം ചെയ്യുമ്പോൾ അത് നന്നായി പൊരുത്തപ്പെടുന്നു അതിനാൽ അനന്തതയിൽ ഉള്ള ഷിയർ സ്ട്രെസ് നോക്കുകയാണെങ്കിൽ നമുക്ക് psi z പൂജ്യം ആയതിനാൽ നമുക്ക് ഒരു ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാകൂ നമുക്ക് chi മാത്രമേ ലഭ്യമാകൂ അതിനാൽ ബൈ ആക്സിയൽ ലോഡിംഗിന്റെ കാര്യത്തിൽ നമുക്ക് psi മാത്രമേ ലഭ്യമാകൂ അതിനാൽ എനിക്ക് psi chi എന്നിവ രണ്ടും ഉണ്ടെങ്കിൽ മാത്രം തന്നിരിക്കുന്ന പ്രശ്നം മോഡലിംഗ് ചെയ്യുന്നതിൽ നമുക്ക് കൂടുതൽ സൌകര്യമുണ്ട് നമുക്ക് അത് കാണാനാകും രണ്ട് കേസുകൾ കൂടി നമ്മൾ പരിശോധിക്കും ഇവയെല്ലാം ലളിതവും പ്രസിദ്ധവുമായ പ്രശ്നങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാം ചതുരാകൃതിയിലുള്ള ബീമിനു പ്യൂവർ ബെൻഡിങ് ഉണ്ടാകുമ്പോൾ സ്ട്രെസ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം ഫംഗ്ഷൻ psi chi പ്രൈം ഇങ്ങനെ കൊടുത്തിരിക്കുന്നു psi z എന്നത് i ഗുണം M ബൈ 8I z സ്ക്വയർ ആണ് ഇവിടെ I മോമെൻറ് ഓഫ് ഇനേർഷ്യ ആണ് chi പ്രൈം z i ഗുണം M ബൈ 8I z സ്ക്വയർ തന്നെയാണ് രണ്ടും തുല്യമാണ് ഇവിടെ ഇത് psi z ആണ് ഇവിടെ ഇത് chi പ്രൈം z ആണ്

മറ്റൊരു പ്രശ്നം ഒരു ടെൻഷൻ സ്ട്രിപ്പിലെ ഹോൾ ഓഫ് റേഡിയസ് a നമുക്ക് പ്രസക്തമായ ഫംഗ്ഷൻ psi chi എന്നിവയുണ്ട് psi യെ 1 ബൈ 4 സിഗ്മ z പ്ലസ് 1 ബൈ 2 a സ്ക്വയർ ബൈ z ആയി നൽകുന്നു ഒപ്പം chi z നമ്മൾ ശ്രദ്ധിക്കണം ഇതുവരെ നമ്മൾ chi പ്രൈമിലേക്ക് മാത്രമാണ് നോക്കിയിരുന്നത് ഈ പ്രശ്നത്തിന്chi z നേരിട്ട് നൽകിയിരിക്കുന്നു chi z മൈനസ് ഹാഫ് സിഗ്മ z മൈനസ് 1 ബൈ 2 സിഗ്മ a സ്ക്വയർ ബൈ z പ്ലസ് 1 ബൈ 2 സിഗ്മ a പവർ 4 ബൈ z ക്യൂബ് ആണ് ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്താണെന്ന് കാണുക വിവിധ പ്രശ്നങ്ങൾക്ക് നമുക്ക് psi chi എന്ന വിശകലന പ്രവർത്തനം തിരിച്ചറിയാൻ കഴിയും അതിനാൽ ഏറ്റവും പ്രധാന കാര്യം ഏത് എയറിസ് സ്ട്രെസ് ഫംഗ്ഷനും രണ്ട് അനലിറ്റിക് ഫംഗ്ഷനുകളുടെ സംയോജനമായി പ്രകടിപ്പിക്കാൻ കഴിയും അതിനാൽ ഇത് ഏറ്റവും സാധാരണമാണ് വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷന് ഒരു അധിക സ്ട്രെസ് ഫംഗ്ഷൻ ക്യാപിറ്റൽ Y അവതരിപ്പിക്കുമ്പോൾ സാൻഫോർഡ് മുന്നോട്ടുവച്ച വാദം അതാണ് അതിനാൽ പ്രശ്നം നിർവചിക്കുന്നതിൽ എനിക്ക് കൂടുതൽ വഴക്കമുണ്ട് കാരണം നമുക്ക് x അക്ഷത്തിൽ tau xy 0 ആകണം പരിഹാരം നിയന്ത്രിതമായിരുന്നു ഇത് പരീക്ഷണാത്മക സാഹചര്യങ്ങളിൽ 0 അല്ലെങ്കിലും ഇത് tau മാക്സ് 0 ആക്കി അതിനാൽ നമ്മൾ അത് കുറയ്ക്കേണ്ടത് ഉണ്ട് അതിനാൽ സ്ട്രെസ് ഫീൽഡ് നിർവചിക്കുന്നതിൽ എനിക്ക് കുറച്ചുകൂടി വഴക്കം ആവശ്യമാണ് മോഡ് I നായുള്ള സമഗ്രമായ എയറിസ് സ്ട്രെസ് ഫംഗ്ഷൻ ഇപ്പോൾ നമുക്ക് ക്രാക്ക് പ്രശ്നത്തിലേക്ക് മടങ്ങിവരാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എയറിസ് സ്ട്രെസ് ഫംഗ്ഷൻ phi എന്നത് റിയൽ ഭാഗം z സ്റ്റാർ psi z പ്ലസ് chi z ആണ് കൂടാതെ നമ്മൾ സിഗ്മ x പ്ലസ് സിഗ്മ y നോക്കി അത് psi പ്രൈം z ന്റെ യഥാർത്ഥ ഭാഗത്തിന് 4 മടങ്ങാണ് കൂടാതെ സിഗ്മ y മൈനസ് സിഗ്മ x പ്ലസ് 2 i tau xy എന്നത് z സ്റ്റാർ psi ഡബിൾ പ്രൈം പ്ലസ് chi ഡബിൾ പ്രൈമിന് ഇരട്ടിയാണ് ഇത് കൂടുതൽ വിപുലീകരിക്കാൻ കഴിയും ഇത് വളരെ ലളിതമായ ഒരു ഗണിതമാണ് സിഗ്മ x സിഗ്മ y tau xy എന്നിവയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് എനിക്ക് എഴുതാൻ കഴിയും ഇത് വളരെ ലളിതവും നേരെയുമാണ് ഒരു ശ്രമം നടത്തുക നമ്മൾ ഒരു ശ്രമം നടത്തേണ്ടതുണ്ട് കാരണം അത് നിങ്ങളെ ക്ലാസ്സിൽ ശ്രദ്ധാപൂർവ്വം നിലനിർത്തുകയും കുറിപ്പുകളിലൂടെ സുഖമായി പോകാൻ സഹായിക്കുകയും ചെയ്യും ഏത് സാഹചര്യത്തിലും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന പദപ്രയോഗങ്ങൾ ഞാൻ കാണിക്കും അതിനാൽ എനിക്ക് സിഗ്മ x സിഗ്മ y tau xy എന്നിവയുണ്ട് 2 psi പ്രൈം മൈനസ് z സ്റ്റാർ psi ഡബിൾ പ്രൈം മൈനസ് chi ഡബിൾ പ്രൈമിന്റെ യഥാർത്ഥ ഭാഗമായാണ് സിഗ്മ x നൽകിയിരിക്കുന്നത് സിഗ്മ y എന്നത് 2 psi പ്രൈം പ്ലസ് z സ്റ്റാർ psi ഡബിൾ പ്രൈം പ്ലസ് chi ഡബിൾ പ്രൈമിന്റെ യഥാർത്ഥ ഭാഗമാണ് Z സ്റ്റാർ psi ഡബിൾ പ്രൈം പ്ലസ് chi ഡബിൾ പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗമായാണ് tau xy നൽകിയിരിക്കുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്ന ചില പദപ്രയോഗങ്ങൾ വളരെ നീണ്ടതാണെന്ന് നമ്മൾക്കറിയാം ഇത് എഴുതാൻ ക്ഷമയോടെയിരിക്കുക ഇവയെല്ലാം ഗവേഷണ പ്രബന്ധങ്ങളിൽ നിന്ന് എടുത്തതാണ് എയറിസ് സ്ട്രെസ് ഫംഗ്ഷൻ നൽകികഴിഞ്ഞാൽ എനിക്ക് ഡിഫറെൻഷ്യറ്റ് ചെയ്താൽ സിഗ്മ x സിഗ്മ y tau xy എന്നിവയ്ക്കുള്ള എക്സ്പ്രഷൻ നേടാനും കഴിയും എന്നാൽ ഇവിടെ ശ്രമിക്കുന്നത് കൊളോസോവ് മസ്കെലിഷ്വിലി സമീപനത്തിൽ നിന്നുള്ള സ്ട്രെസ് ഫംഗ്ഷൻ ക്യാപിറ്റൽ Y നിലനിൽക്കുന്നതിനുള്ള പരോക്ഷമായ ന്യായീകരണമാണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഒരുമിച്ച് കാണുന്നത് ആരെങ്കിലും സ്ട്രെസ് ഫംഗ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കില്ല ഇവിടെയും നമ്മൾ ആ വിഷയത്തിലേക്കു പോകുന്നു ഈ സ്ട്രെസ് ഫംഗ്ഷൻ ക്യാപിറ്റൽ Y ചേർത്തതിന്റെ ഒരു ന്യായീകരണം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു അതിനാൽ കൊളോസോവ് മസ്കെലിഷ്വിലി ഫോർമുലേഷന്റെ അടിസ്ഥാനത്തിൽ psi chi എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ ക്യാപിറ്റൽ Y നോക്കാമെന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും ഇപ്പോൾ ഷിയർ സ്ട്രെസ് നോക്കേണ്ടതുണ്ട് കാരണം അതാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് കാരണമായത് അതിനാൽ ഷിയർ സ്ട്രെസ്നുള്ള പദപ്രയോഗം നമുക്ക് എഴുതാം അതിനാൽtau xy x ഗുണം psi ഡബിൾ പ്രൈം സാങ്കല്പിക ഭാഗം മൈനസ് y ഗുണം psi ഡബിൾ പ്രൈം സാങ്കൽപ്പിക ഭാഗമായി മാറുന്നു Y 0 ന് തുല്യമായി എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ശരിക്കും നോക്കുന്നു സിമട്രി അക്ഷത്തിൽ tau xy 0 ന് തുല്യമായിരിക്കണം അതിനാൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഈ പദം സ്വപ്രേരിതമായി മാറ്റപ്പെടും ഇത് 0 ലേക്ക് പോകാനും നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ എനിക്ക് x ഗുണം psi ഡബിൾ പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗം പ്ലസ് chi ഡബിൾ പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗം 0 ന് തുല്യമായിരിക്കണം ഇനി നമുക്ക് ക്യാപിറ്റൽ Y നെ z psi ഡബിൾ പ്രൈം പ്ലസ് chi ഡബിൾ പ്രൈം എന്ന് നിർവചിക്കാം നമ്മൾ അത് ഉപയോഗിക്കുന്ന ഒരു ഗണിതശാസ്ത്ര ജാലവിദ്യയുണ്ട് അതിനാൽ ബുദ്ധിമുട്ട് കാണരുത് Y എന്ന സ്ട്രെസ് ഫംഗ്ഷന് പരോക്ഷമായ ഒരു ന്യായീകരണം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതിനാൽ tau xy 0 എന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ഈ x സാങ്കൽപ്പിക ഭാഗം psi ഡബിൾ പ്രൈം പ്ലസ് chi ഡബിൾ പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗം പൂജ്യത്തിന് തുല്യമായിരിക്കും എന്ന് എഴുതാൻ കഴിയും ഈ രീതിയിൽ നമ്മൾ ക്യാപിറ്റൽ Y നിർവചിക്കുന്നു ഇത് Y യുടെ സാങ്കൽപ്പിക ഭാഗമായി മാറും സ്ട്രെസ് ഫംഗ്ഷൻ Y ഉചിതമായി തിരഞ്ഞെടുക്കുന്നതിലൂടെ വെസ്റ്റർഗാർഡിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ ഇർവിന്റെ പരിഷ്ക്കരണം പൊതുവായ പരിഹാരം എന്നിവ സാൻഫോർഡിന് കാണിക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻറെ സംഭാവന ഒരു പ്രത്യേക കേസിലെ പൊതുവായ പരിഹാരം നമ്മൾ നോക്കിയ മുമ്പത്തെ ലളിതവൽക്കരിച്ച കേസുകളായി ചുരുക്കേണ്ടതാണ് ക്യാപിറ്റൽ Y അവതരിപ്പിച്ചുകൊണ്ട് ആ വശം തൃപ്തിപ്പെട്ടു അതായിരുന്നു വിജയം ഇത് വളരെ സൂക്ഷ്മമായ ഒരു പോയിന്റാണെന്ന് നമ്മൾക്കറിയാം കാരണം നമുക്ക് ഫ്രിഞ്ച്കൾ നോക്കുന്നതിന്റെ നേട്ടം ഉണ്ടായിരുന്നു വാസ്തവത്തിൽ സാൻഫോർഡ് ഇർവിനുമായി സഹകരിച്ചയാളാണ് മാത്രമല്ല അവർ ഫോട്ടോ ഇലാസ്റ്റിറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി പരീക്ഷണങ്ങൾ നടത്തി അതിനാൽ അവർക്ക് മുമ്പിൽ ഈ ഫലങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ ആ ഫലങ്ങൾ ചിന്തിക്കാനും ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിക്കാനും അവരെ ശരിക്കും പ്രേരിപ്പിച്ചു കൂടാതെ ഒരു പരിഹാരവും കണ്ടെത്തുക അതിനാൽ നമുക്ക് psi ഡബിൾ പ്രൈം Y എന്നിവയുടെ അടിസ്ഥാനത്തിൽ chi ഡബിൾ പ്രൈം മാറ്റിസ്ഥാപിക്കാം സമവാക്യങ്ങൾ പുനർനിർമിക്കുകയും സമവാക്യം ഇതുപോലെ ദൃശ്യമാവുകയും ചെയ്യുന്നു സിഗ്മ y മൈനസ് സിഗ്മ x പ്ലസ് 2i tau xy എന്നത് 2 ഗുണം z സ്റ്റാർ മൈനസ് z ഗുണം psi ഡബിൾ പ്രൈം പ്ലസ് ക്യാപിറ്റൽ Y ആണ് അതിനാൽ നമ്മൾ ഇത് നിർവചിച്ചുകഴിഞ്ഞാൽ psi Yഎന്നീ സ്ട്രെസ് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സിഗ്മ x സിഗ്മ y tau xy എന്നിവ കണ്ടെത്താനാകും അതിനാൽ എനിക്ക് ഇത് എഴുതാം ഇത് ലളിതമാക്കുകയും അന്തിമഫലം നൽകുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് സിഗ്മ x സിഗ്മ y tau xy എന്നിവ സിഗ്മ x ആയി നൽകിയിട്ടുണ്ട് ഇത് 2 ഗുണം psi പ്രൈം മൈനസ് 2y psi ഡബിൾ പ്രൈം സാങ്കല്പിക ഭാഗം മൈനസ് Y യഥാർത്ഥ ഭാഗത്തിന് തുല്യമാണ് x ടേം സിഗ്മ y ടേം എന്നിവ തമ്മിൽ ചെറിയ മാറ്റങ്ങളെ ഉള്ളൂ രണ്ടാമത്തെ ടേമിലെ ചിഹ്ന മാറ്റം മാത്രമേ നമുക്ക് ഉള്ളൂ അതായത് മൈനസ് എന്നത് പ്ലസ് ആയി അതുപോലെ മൂന്നാമത്തെ ടേമിൽ മൈനസ് പ്ലസ് ആയി നമുക്ക് tau xy എന്ന പദപ്രയോഗം മൈനസ് 2y ഗുണം psi ഡബിൾ പ്രൈമിന്റെ യഥാർത്ഥ ഭാഗം പ്ലസ് Y യുടെ സാങ്കൽപ്പിക ഭാഗവുമാണ് നമുക്ക് തിരികെ പോയി tau xy യ്ക്കുള്ള വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാൻ കഴിയുമെങ്കിൽ ഇതിന് ക്യാപിറ്റൽ Z ഉൾപ്പെടുന്ന ഒരു പദം മാത്രമേ ഉണ്ടാകൂ അതിനാൽ എനിക്ക് psi യും ക്യാപിറ്റൽ Z ഉം തമ്മിലുള്ള ഐഡന്റിറ്റി കണ്ടെത്താനാകും നമുക്ക് ഈ പദം മൈനസ് 2y ഗുണം psi ഡബിൾ പ്രൈമിന്റെ യഥാർത്ഥ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ Y യുടെ സാങ്കൽപ്പിക ഭാഗം ഒരു അധിക പദമാണ് അതിനാൽ സിമട്രി ആക്സിൽ ഷിയർ സ്ട്രെസ് 0 ആണ് മുകളിൽ പറഞ്ഞതുപോലെ Y നിർവചിക്കുന്നതിലൂടെ കണ്ടീഷൻ ചുരുങ്ങുന്നു കാരണം നിങ്ങളുടെ പക്കലുള്ള ആദ്യത്തെ പദം ഫംഗ്ഷൻറെ y ഇരട്ടിയാണ് അതിനാൽ y 0 ആയിരിക്കുമ്പോൾ ആ പദം സ്വപ്രേരിതമായി 0 ആയി മാറുന്നു അതിനാൽ ഷിയർ സ്ട്രെസ് ക്രാക്ക് അക്ഷത്തിൽ 0 ആയിരിക്കുന്നതിനാൽ Y z ന്റെ സാങ്കൽപ്പിക ഭാഗം0 ന് തുല്യമായി കുറയുന്നു നമ്മൾ മോഡ് I അവസ്ഥ നോക്കുമ്പോൾ അതിർത്തി വ്യവസ്ഥകൾ തൃപ്തിപ്പെടുത്തുന്ന രീതി ഓർത്തെടുക്കുക ആദ്യത്തെ അതിർത്തി വ്യവസ്ഥകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ നോക്കി വിള്ളൽ മുഖങ്ങളിൽ എന്ത് സംഭവിക്കും രണ്ടാമത്തെ അതിർത്തി വ്യവസ്ഥകൾ അനന്തതയിൽ എന്ത് സംഭവിക്കും മൂന്നാമത്തെ വ്യവസ്ഥ നമ്മൾ ഒന്നും ചെയ്തില്ല കാരണം ക്രാക്ക് ആക്സിസ് ഷിയർ സ്ട്രെസ് 0 ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു അതിർത്തി അവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാൻ നമുക്ക് ഒരു വഴിയും ഇല്ല ഇത് സ്വാഭാവികമായി തൃപ്തികരമായിരുന്നു നമുക്ക് ഒട്ടും പ്രയാസമില്ലായിരുന്നു നമുക്ക് ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു പക്ഷേ ഫലങ്ങൾ നമ്മൾ പരീക്ഷണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് കണ്ടെത്തി

ഇപ്പോൾ നമ്മൾ കാണുന്നത് അവസ്ഥയെ Y z ന്റെ സാങ്കൽപ്പിക ഭാഗം 0 ന് തുല്യമായി പരിഷ്ക്കരിക്കുന്നു അതിനാൽക്യാപിറ്റൽ Y എടുക്കുന്ന രീതി മാറ്റുന്നതിലൂടെ ഈ അവസ്ഥ എങ്ങനെയാണ് പ്രശ്നത്തെ നിർണ്ണയിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നിയന്ത്രണമുണ്ടാകും ഞാൻ ക്യാപിറ്റൽ Y പൂജ്യത്തിന് തുല്യമായി എടുക്കുന്നുവെന്ന് കരുതുക അത് വെസ്റ്റർഗാർഡ് ചെയ്തതിന് സമാനമാണ് Y പോലുള്ള പ്രവർത്തനങ്ങളൊന്നും നിലവിലില്ല അപ്പോൾ എനിക്ക് വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷനുകൾ ലഭിക്കും സ്ട്രെസ് ഫീൽഡിന്റെ ആവിഷ്കാരം വെസ്റ്റർഗാർഡ് പരിഹാരത്തിൽ നമ്മൾ കാണുന്നതിനു തുല്യമായിരിക്കും കൂടാതെ നമ്മൾ 2 psi പ്രൈം ക്യാപിറ്റൽ Zന് തുല്യമായി സജ്ജീകരിക്കേണ്ടതുണ്ട് അപ്പോൾ എനിക്ക് പരമ്പരാഗത വെസ്റ്റർഗാർഡ് പരിഹാരം ലഭിക്കും നമുക്ക് സിഗ്മ x സിഗ്മ y tau xy നൽകിയിട്ടുണ്ട് സിഗ്മ x എന്നത് ക്യാപിറ്റൽ Zൻറെ റിയൽ ഭാഗം പ്ലസ് y Z പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗമാണ് സിഗ്മ y ക്യാപിറ്റൽ Z റിയൽ ഭാഗം പ്ലസ് y ക്യാപിറ്റൽ Z പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗവും ആണ് tau xy ക്യാപിറ്റൽ Z പ്രൈമിന്റെ യഥാർത്ഥ ഭാഗത്തിന്റെ മൈനസ് y മടങ്ങ് ആണ് ഇത് നേരെ ഉള്ളതാണ് നമ്മൾ y നെ 0 ആയി സജ്ജമാക്കുന്നു കൂടാതെ ഇർവിന്റെ പരിഷ്ക്കരണം എങ്ങനെ ലഭിക്കും നമുക്ക് ഒടുവിൽ Y z ന്റെ സാങ്കൽപ്പിക ഭാഗം 0 ന് തുല്യമായി വേണം ഒരാൾക്ക് Y യഥാർത്ഥ കോൺസ്റ്റൻസ് ആയി സജ്ജമാക്കാനും കഴിയും നമ്മൾ Y ഒരു യഥാർത്ഥ കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ സാങ്കൽപ്പിക ഭാഗം 0 ആണ് അതിനാൽ നമ്മൾ നോക്കേണ്ടത് 0 ന് തുല്യമായ tau xy എന്ന അവസ്ഥ Y യെ ഉചിതമായി എടുക്കുന്നതിലൂടെ ഇപ്പോഴും തൃപ്തികരമാണ് ഇത്തരത്തിലുള്ള ഒരു ആഡംബരം നമുക്ക് ഇല്ലായിരുന്നു നമുക്ക് ഒരു സ്ട്രെസ് ഫംഗ്ഷൻ മാത്രമുള്ളപ്പോൾ നമുക്ക് പരിഹാരം ലഭിക്കുന്നു വെസ്റ്റർഗാർഡ് തന്റെ പേപ്പറിൽ y പൂജ്യത്തിനു തുല്യമായതും tau xy പൂജ്യം ആയതുമായ പലതരം പ്രശ്നങ്ങളും പരിഹരിച്ചതിനാൽ നമ്മൾ അത് തുടർന്നു അതിനാൽ ഒരു വിള്ളൽ പ്രശ്നത്തിന്റെ കാര്യത്തിൽ ഒരാൾ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുമെന്ന് ആളുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചില്ല ആളുകൾ ഫലത്തെ പരീക്ഷണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്ന് അവർക്ക് തോന്നി അതിനാൽ ആദ്യകാല പരിഷ്ക്കരണങ്ങളിലൊന്ന് ഇർവിൻ ചെയ്തു അതിനാൽ എനിക്ക് ഇർവിന്റെ പരിഹാരം ലഭിക്കണമെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ Y Aയ്ക്ക് തുല്യമായി എടുക്കുകയും ക്യാപിറ്റൽ Z മൈനസ് A യ്ക്ക് തുല്യമായ 2 psi പ്രൈം സജ്ജമാക്കുകയും ചെയ്യുക അപ്പോൾ ഒരാൾക്ക് ഈ രീതിയിൽ സിഗ്മ x സിഗ്മ ytau xy എന്നിവ ലഭിക്കും അതിനാൽ എനിക്ക് ക്യാപിറ്റൽ Z ന്റെ യഥാർത്ഥ ഭാഗം മൈനസ് y ക്യാപിറ്റൽ Z പ്രൈം ന്റെ സാങ്കൽപ്പിക ഭാഗം മൈനസ് 2A ലഭിക്കുന്നു നിങ്ങളുടെ അധിക സ്ട്രെസ് പദമായ സിഗ്മ നോട്ട് x ഇത് വിശദീകരിക്കും സിഗ്മ y tau xy എന്നിവ പരമ്പരാഗത വെസ്റ്റർഗാർഡ് പരിഹാരത്തിൽ നമ്മൾ നേടിയതിനോട് വളരെ സാമ്യമുള്ളതാണ് സാമാന്യവൽക്കരിച്ച വെസ്റ്റർഗാർഡ് സമവാക്യങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ Y അവതരിപ്പിക്കാൻ പോകുന്നു എന്നതാണ് എന്നാൽ Y z ന്റെ സാങ്കൽപ്പിക ഭാഗം 0 ന് തുല്യമാണെന്ന് മാത്രമേ നമ്മൾ ഉറപ്പാക്കൂ ഇതാണ് നമ്മൾ ഊന്നി പറയാൻ പോകുന്നത് അതിനാൽ ഞാൻ ഇത് ചെയ്യുകയും ക്യാപിറ്റൽ Z മൈനസ് Y ക്ക് തുല്യമായി 2 psi പ്രൈം എടുക്കുകയും ചെയ്താൽ എനിക്ക് പൊതുവായ വെസ്റ്റർഗാർഡ് സമവാക്യങ്ങൾ ലഭിക്കും എനിക്ക് സിഗ്മ x സിഗ്മ y tau xy ഉണ്ട് സിഗ്മ x എന്നത് ക്യാപിറ്റൽ Z ന്റെ യഥാർത്ഥ ഭാഗം മൈനസ് y ക്യാപിറ്റൽ Z പ്രൈമിന്റെ സാങ്കല്പിക ഭാഗം മൈനസ് y ക്യാപിറ്റൽ Y പ്രൈമിന്റെ സാങ്കല്പിക ഭാഗം പ്ലസ് 2 തവണ Y ൻറെ റിയൽ ഭാഗവുമാണ് സിഗ്മ y എന്നത് Z ൻറെ റിയൽ ഭാഗം പ്ലസ് y Z പ്രൈമിന്റെ സാങ്കൽപ്പിക ഭാഗം പ്ലസ് y Y പ്രൈമിന്റെ സാങ്കല്പിക ഭാഗം എന്നതാണ് അതിനാൽ വെസ്റ്റർഗാർഡ് പരിഹാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഒരു അധിക പദമാണ് അവസാനമായി നമുക്ക് മൈനസ് y Z പ്രൈമിന്റെ റിയൽ ഭാഗത്തിന് തുല്യമായ tau xy ലഭിക്കും തുടർന്ന് നമുക്ക് രണ്ട് അധിക പദങ്ങൾ മൈനസ് y Y പ്രൈമിന്റെ റിയൽ ഭാഗം മൈനസ് Y ന്റെ സാങ്കൽപിക ഭാഗം എന്ന് ലഭിക്കും നമ്മൾ ഒരു സർക്യൂട്ട് റൂട്ടിലൂടെ കടന്നുപോയി നമ്മൾ കൊളോസോവ് മസ്കെലിഷ്വിലി ഫോർമുലേഷൻ നോക്കി ഏറ്റവും സാധാരണമായ ഒരു കേസിൽ നമ്മൾ ഒരു ന്യായീകരണം നൽകി രണ്ട് അനലിറ്റിക് ഫംഗ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ ഒരു എയറിസ് സ്ട്രെസ് ഫംഗ്ഷൻ പ്രതിനിധീകരിക്കുന്നു ആ വാദത്തിൽ നിന്ന് വെസ്റ്റർഗാർഡ് പ്രശ്നത്തിനായുള്ള എറിസ് സ്ട്രെസ് ഫംഗ്ഷനു രണ്ട് സ്ട്രെസ് ഫംഗ്ഷനുകൾ ഉണ്ടായിരിക്കണം അതിനാൽ നമുക്ക് ഒരു ഘടകമായി ക്യാപിറ്റൽ Z ക്യാപിറ്റൽ Y എന്നിവ ഉണ്ടായിരിക്കാം ക്യാപിറ്റൽ Z ക്യാപിറ്റൽ Y എന്നിവയുടെ രൂപമെന്താണെന്ന് നമ്മൾ ഇപ്പോഴും പരിശോധിച്ചിട്ടില്ല എയറിസ് സ്ട്രെസ് ഫംഗ്ഷനെ വേർതിരിക്കുന്നതിൽ നിന്ന് എനിക്ക് നേരിട്ട് ഈ പദപ്രയോഗം നേടാനാകും എനിക്ക് ഇവിടെ ലഭിച്ച ഫലം എന്തായാലും എയറിസ് സ്ട്രെസ് ഫംഗ്ഷന്റെ ഈ പദപ്രയോഗത്തിൽ നിന്നും ലഭിക്കും അതിനാൽ ഈ ക്ലാസ്സിൽ മോഡ് III ന്റെ കാര്യത്തിൽ സ്ട്രെസ് ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് എന്താണെന്ന് നമ്മൾ പരിശോധിച്ചു ക്രാക്ക് ടിപ്പിന് വളരെ അടുത്താണ് ഇവ സാധുതയുള്ളതെന്ന് ഞാൻ പറഞ്ഞു അടിസ്ഥാനപരമായ ചോദ്യം ഉന്നയിക്കുന്നതിലേക്ക് നമ്മൾ നീങ്ങി ഒരു ഫോട്ടോലാസ്റ്റിക് പരീക്ഷണത്തിൽ കാണപ്പെടുന്ന ഫ്രിഞ്ച് പാറ്റേണുകൾ ക്രാക്ക് അക്ഷത്തിൽ പരമാവധി ഷിയർ സ്ട്രെസ് വ്യത്യാസപ്പെടുന്നുവെന്ന് കാണിക്കുന്നു അതേസമയം പരമ്പരാഗത വെസ്റ്റർഗാർഡും പരിഷ്കരിച്ച വെസ്റ്റർഗാർഡും ഈ പ്രതിഭാസത്തെ ഉൾക്കൊള്ളുന്നില്ല ഈ പ്രതിഭാസം പകർത്താൻ സാൻഫോർഡ് മുന്നോട്ട് വന്ന് ഒരു അധിക സ്ട്രെസ് ഫംഗ്ഷൻ അവതരിപ്പിച്ചു ക്യാപിറ്റൽ Z ക്യാപിറ്റൽ Y എന്നിവയുടെ കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന സ്ട്രെസ് ഫീൽഡ് എന്തുതന്നെയായാലും അതിനെ വെസ്റ്റെർഗാർഡ് സമവാക്യങ്ങൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു സാമാന്യവൽക്കരിച്ച വെസ്റ്റർഗാർഡ് സമവാക്യങ്ങളിൽ നിന്ന് Y എന്ന ഫംഗ്ഷൻ ഉചിതമായി തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് ഇർവിന്റെ പരിഷ്ക്കരണവും അടിസ്ഥാന വെസ്റ്റർഗാർഡ് പരിഹാരവും ലഭിക്കും